കീവേഡുകൾ കാബൂളിവാല സ്പേഷ്യലിറ്റി ക്രമീകരണം ടോൺ ഹലോ ടാഗോറിന്റെ കാബൂളിവാലയുടെ സ്പേഷ്യലിറ്റിയെ കുറിച്ചുള്ള ഈ പ്രഭാഷണത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇനി നമുക്ക് ഒരു സാങ്കൽപ്പിക ലോകത്തിലെ ക്രമീകരണത്തിന്റെ സമയ വശം നോക്കാം അപ്പോൾ നമ്മൾ ഈ ചോദ്യം ചോദിക്കേണ്ടതുണ്ട് കഥ നടക്കുന്നത് എപ്പോഴാണെന്ന് ഈ കഥ നടക്കുന്ന ചരിത്ര കാലഘട്ടം ഏതാണ് അല്ലെങ്കിൽ ഏത് ദിവസത്തിന്റെ സമയത്താണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏതു വർഷമാണ് തുടങ്ങിയവ ഇനി നമുക്ക് കാബൂളിവാലയെക്കുറിച്ചുള്ള നമ്മുടെ കഥയിലേക്ക് മടങ്ങാം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ടാഗോർ കഥകൾ എഴുതാൻ തുടങ്ങിയതെന്നും ടാഗോർ ബംഗാളിൽ നിന്നാണെന്നും ഊഹിക്കാവുന്നതിനാൽ ഇത് 19 ആം നൂറ്റാണ്ടിൽ ബംഗാളിൽ ക്രമീകരിച്ചതാണെന്ന് നമുക്ക് ഊഹിക്കാം ഈ പൊതുവായ സൂചനകൾ കഥയുടെ സമയത്തെക്കുറിച്ച് യുക്തിസഹമായി ഊഹിക്കാൻ നമ്മളെ സഹായിക്കും എന്നാൽ കഥയുടെ പശ്ചാത്തലം ഊഹിക്കുന്നതിനുള്ള ഒരു വഴി മാത്രമാണിത് മറ്റ് സ്പേഷ്യൽ സൂചനകൾ സജ്ജീകരണത്തെക്കുറിച്ചുള്ള മറ്റ് സൂചനകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആഖ്യാനത്തിലേക്ക് നോക്കണം ഇത് എപ്പോഴാണ് കഥ കൃത്യമായി സജ്ജീകരിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കൃത്യമായ വീക്ഷണം നൽകും കഥ എപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ സൂചനയായിരിക്കും പ്രസിദ്ധീകരണ തീയതിയും അതിനാൽ ഇവ ചില സൂചനകളാണ് എന്നാൽ നമ്മുടെ അനുമാനങ്ങളിൽ കൂടുതൽ കൃത്യതയുള്ളതാകാൻ സജ്ജീകരണത്തെക്കുറിച്ചുള്ള ആഖ്യാന സൂചനകൾ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ കഥയ്ക്കുള്ളിൽ ബംഗാളിനെക്കുറിച്ച് ഒരു പരാമർശമുണ്ട് ഇതാണ് ബംഗാളി പെൺകുട്ടികൾക്ക് ജനനം മുതൽ ഭർതൃബന്ധുക്കൾ എന്ന പദം പ്രായോഗികമായി പരിചിതമായിരുന്നു എന്നാൽ കൂടുതൽ ആധുനികമായതിനാൽ ഈ ഇളം പ്രായത്തിൽ മകളുടെ മനസ്സിൽ അത്തരം ചിന്തകൾ നിറയ്ക്കരുതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ ഈ കഥ ബംഗാളിനെ വളരെ വ്യക്തമായി പരാമർശിക്കുന്നു അതിനാൽ മിനിയും ഒരു ബംഗാളിയാണെന്ന് നമുക്ക് വ്യക്തമായി ശ്രദ്ധിക്കാം ഈ കഥ ചില കാര്യങ്ങളിൽ ബംഗാളിന്റെ ലോകത്തെക്കുറിച്ചാണ് ഒരു നിലയിൽ മിനി ഈ ബംഗാളി പെൺകുട്ടികളുടെ ഭാഗമാണെങ്കിലും ഈ പ്രത്യേക കുടുംബം എഴുത്തുകാരന്റെ കുടുംബം ബംഗാളിലെ മറ്റ് സമുദായങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് കൂടുതൽ ആധുനികം എന്ന ഈ പദപ്രയോഗത്തിന്റെ പരാമർശവും അത് എടുത്തുകാണിക്കുന്നു അച്ഛൻ പറയുന്നു ഞങ്ങൾ കൂടുതൽ ആധുനികരാണ് അതിനാൽ ഞങ്ങളുടെ മകളുടെ മനസ്സിനെ ഭാരപ്പെടുത്തേണ്ടതില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ മകളുടെ മനസ്സിനെ അവളുടെ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത ചിന്തകളാൽ ഞെരുക്കേണ്ടതില്ല കാരണം അവ ചെറിയ പെൺകുട്ടിയുടെ ഇളം പ്രായത്തെ അടിച്ചമർത്തുന്നവയായിരിക്കും അതിനാൽ വ്യത്യാസവും ഊന്നിപ്പറയുന്നു അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കഥയിലെ ഒരു പ്രഭുവും എഴുത്തുകാരന്റെ മകളുമായ ബംഗാളി പെൺകുട്ടിയും മറ്റു ബംഗാളി പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം ഈ ബംഗാളി സാംസ്കാരിക സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ച് വീണ്ടും പരാമർശങ്ങളുണ്ട് ഉദാഹരണത്തിന് ബംഗാളിന് അപരിചിതനായ കാബൂളിവാല പാച്ചി ബംഗാളി മുറിയൻ ബംഗാളിയിൽ സംസാരിക്കുന്നു അത് കഥയിൽ വീണ്ടും വീണ്ടും ഊന്നിപ്പറയുകയും വ്യത്യാസം വീണ്ടും ഊന്നിപ്പറയുകയും ചെയ്യുന്നു ഭാഷ വ്യത്യാസം സ്ഥാപിക്കാനും സ്ഥിരീകരിക്കാനുമുള്ള ഒരു മാർഗമാണ് പ്രഭുക്കന്മാർ തികഞ്ഞ ബംഗാളി സംസാരിക്കുമ്പോൾ നമുക്ക് അനുമാനിക്കാം അപരിചിതൻ അവരുടെ ലോകത്തോട് മുറിയൻ ബംഗാളിയാണ് സംസാരിക്കുന്നത് ബംഗാളി കുടുംബത്തെക്കുറിച്ച് വീണ്ടും ഒരു പരാമർശമുണ്ട് കഥയുടെ പിന്നീടുള്ള ഘട്ടത്തിൽ പ്രത്യേകിച്ച് കഥയുടെ അവസാന ഘട്ടത്തിൽ ഞാൻ ഉദ്ധരിക്കുന്നുഅദ്ദേഹം കാബൂളിൽ നിന്നുള്ള ഒരു സാധാരണ പഴക്കച്ചവടക്കാരനാണെന്നത് എനിക്കിപ്പോൾ പ്രശ്നമല്ല ഞാൻ ഒരു കുലീന ബംഗാളി കുടുംബത്തിൽ പെട്ടയാളായിരുന്നു സ്വന്തം മകളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനാകാതെ തകർന്ന മനുഷ്യനായ കാബൂളിവാലയെ കാണുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ദൂരെയുള്ള സ്വന്തം മകളുമായി ബന്ധപ്പെടുത്തി കഥയുടെ അവസാനത്തിൽ മിനിയുടെ അച്ഛൻ ഈ വാക്കുകൾ പറയുന്നു കാബൂളിവാലയുടെ ഐഡന്റിറ്റി വീണ്ടും ഉറപ്പിക്കുന്ന കാബൂളിൽ നിന്നുള്ള സാധാരണ പഴക്കച്ചവടക്കാരനാണ് അദ്ദേഹം എന്നത് ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് ഈ അവസരത്തിൽ അദ്ദേഹം പറയുന്നു അതോടൊപ്പം അദ്ദേഹം ഒരു കുലീന ബംഗാളി മനുഷ്യനാണെന്നതും അതിനാൽ ആഖ്യാനം പുരോഗമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ സ്പേഷ്യൽ സെസുകളെല്ലാം നമുക്ക് വീണ്ടും ലഭിക്കും ഇനി ഈ പ്രത്യേക കഥയിലെ ടൈം സ്കെയിലിനെ കുറിച്ചുള്ള കൂടുതൽ ക്യൂകൾ ഇവയാണ് ഒരു പ്രഭാതത്തിൽ കാബൂളിവാല എത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിനിയും കാബൂളിവാലയും പരസ്പരം ഇടപഴകുന്നത് നമ്മൾ കാണുന്നു കൂടാതെ ശരത്കാലത്തിന്റെ തുടക്കത്തെക്കുറിച്ചും കഥയിൽ ശൈത്യകാലത്തിന്റെ അവസാനത്തിലും ഒരു പരാമർശമുണ്ട് ഈ സ്റ്റോറിയിലെ സമയത്തെക്കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ നോക്കാം മിനിയുടെയും അവളുടെ അച്ഛന്റെയും ലോകത്തേക്ക് കാബൂളിവാല കടന്നുവരുന്ന ഒരു പ്രഭാതത്തെക്കുറിച്ച് പരാമർശമുണ്ട് കാബൂളിവാലയും മിനിയും വീണ്ടും കണ്ടുമുട്ടുകയും രസകരമായിരിക്കുകയും ചെയ്യുന്ന കുറച്ച് ദിവസങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട് ശരത്കാലത്തെയും ശീതകാലത്തെയും വീണ്ടും ശരത്കാലത്തെയും കുറിച്ച് പരാമർശമുണ്ട് വാസ്തവത്തിൽ കഥ ശരത്കാലത്തിലാണ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കാലാവസ്ഥയുടെ കാര്യത്തിൽ കൃത്യമായ വൃത്താകാരമുണ്ട് കഥയിലെ പ്രതിസന്ധി ശൈത്യകാലത്താണ് സംഭവിക്കുന്നത് എന്നതും നമ്മൾ ഓർക്കണം അതിനാൽ കഥയിൽ പരാമർശിച്ചിരിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവയ്ക്ക് ചില തീമാറ്റിക് അസോസിയേഷനുകൾ ഉണ്ടായിരിക്കാം ഒരു പ്രത്യേക സംഭവം നടക്കുമ്പോൾ കാലാവസ്ഥ കൊടുങ്കാറ്റാണ് എന്തുകൊണ്ടാണ് കഥയിൽ ഈ നിമിഷത്തിൽ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുന്നത് മറ്റ് നിമിഷങ്ങളിൽ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വശങ്ങൾ ഇവയാണ് അതിനാൽ ശൈത്യകാലത്ത് സംഭവിക്കുന്ന രസകരമായ ഒരു സംഭവം ഞാൻ ഉദ്ധരിക്കാം അച്ഛൻ ഒരു പഠനത്തിൽ ഇരിക്കുന്നു അവൻ അച്ചടിപ്പിഴകൾ തിരുത്തുന്നു അതാണ് ഈ പ്രത്യേക കാര്യം സംഭവിക്കുന്ന നിമിഷം ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ മുറിയിൽ ഇരുന്നു അച്ചടിപ്പിഴ തിരുത്തുകയായിരുന്നു മിക്കവാറും അദ്ദേഹത്തിന്റെ നോവലിലെ അച്ചടിപ്പിഴ ഇത് ശൈത്യകാലത്തിന്റെ അവസാനമായിരുന്നു എന്നാൽ സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താപനില മരവിപ്പിക്കുന്നതും മിക്കവാറും അസഹനീയവുമായിരുന്നു ഗ്ലാസ് ജാലകത്തിലൂടെ വരുന്ന പ്രഭാത സൂര്യന്റെ ചൂട് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരുന്നു ശീതകാലത്തിന്റെ അവസാനത്തെക്കുറിച്ചും വസന്തത്തിന്റെ തുടക്കത്തെക്കുറിച്ചും സംസാരിക്കുന്ന മനോഹരമായി വിവരിക്കുന്ന ഭാഗമാണിത് അതിനാൽ എഴുത്തുകാരൻ തന്റെ മുറിയിൽ പ്രഭാത സൂര്യന്റെ ചൂട് ആസ്വദിച്ചു ഒരു സൃഷ്ടിയെപ്പോലെ മേശയ്ക്കടിയിൽ തന്റെ കാൽക്കൽ നിൽക്കുന്നതുപോലെ ഗ്ലാസ് ജാലകത്തിലൂടെ വരുന്ന ചൂടുള്ള പ്രഭാത സൂര്യന്റെ ഒരു നല്ല കിരണം അത് വളരെ മനോഹരവും ഉദ്വേഗജനകവുമായ ഒരു രംഗമാണ് ഈ മനോഹരമായ രംഗം നമുക്കായി വിവരിക്കുമ്പോൾ ഇതിന് തൊട്ടുപിന്നാലെ നിശബ്ദമായി സംഭവിക്കുന്നത് കാബൂളിവാല അറസ്റ്റിലാകുന്നതാണ് വാസ്തവത്തിൽ തന്റെ ജാലകത്തിലൂടെ എഴുത്തുകാരന് കാബൂളിവാലയെ ഏകദേശം രണ്ട് പോലീസുകാർ കൊണ്ടുപോകുന്നതും കാബൂളിവാല ശപിക്കുകയും കാഴ്ചക്കാരോട് തന്റെ അവസ്ഥ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാണാം സത്യത്തിൽ ഈ രംഗം എന്താണ് നിർവഹിക്കുന്നത് വാസ്തവത്തിൽ ഈ രംഗം ഒരു വലിയ വ്യത്യാസം കാണിക്കുന്നു രണ്ട് പുരുഷ കഥാപാത്രങ്ങൾക്കിടയിൽ മിനിയുടെ അച്ഛനും കാബൂളിവാലയും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് ഇവിടെ ഒരാൾ തന്റെ മുറിയിൽ സുരക്ഷിതമായും സുഖമായും ഋതുക്കൾ മാറുന്നത് ആസ്വദിക്കുന്നു അവന്റെ ജനാലയ്ക്ക് പുറത്ത് മറ്റൊരു വ്യക്തിയെ തടഞ്ഞു നിർത്തുകയും ആക്രമിക്കുകയും അവൻ അക്രമകുറ്റകൃത്യം ചെയ്തതിനാൽ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാൽ രണ്ട് പുരുഷ വ്യക്തികളും തമ്മിലുള്ള സാമൂഹിക ചുറ്റുപാടുകളിൽ വ്യത്യാസമുണ്ട് ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു വശം ഇതാണ് മിനിയുമായി കാബൂളിവാല എത്ര നാളായി കൂട്ടുകൂടുന്നു വാസ്തവത്തിൽ ഇത് വളരെക്കാലമല്ല അവൻ മിക്കവാറും എല്ലാ ദിവസവും മിനിയെ സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്നും അവൾക്ക് പിസ്ത അണ്ടിപ്പരിപ്പ് വാഗ്ദാനം ചെയ്യുന്നതിലൂടെ പെൺകുട്ടിയുടെ ബാലിശമായ ഹൃദയത്തിന്റെ വലിയൊരു ഭാഗം അവൻ ഇതിനകം നേടിയിട്ടുണ്ടെന്നും എഴുത്തുകാരൻ പറയുന്നു അതിനാൽ അവൻ ദിവസവും സന്ദർശിക്കുകയും ചെറിയ പെൺകുട്ടിക്ക് പിസ്ത നൽകുകയും ചെയ്യുന്നു ഈ വാഗ്ദാനങ്ങളിലൂടെയും അവന്റെ തമാശകളിലൂടെയും അവളുമായി അവൻ ബന്ധപ്പെടുന്ന രീതിയിലൂടെയും അവൻ അവളുടെ ഹൃദയം കീഴടക്കുന്നു വാസ്തവത്തിൽ നമുക്ക് വളരെ കൃത്യമായി പറയണമെങ്കിൽ അവൻ ശരത്കാലത്തിലാണ് കഥയിലേക്ക് വരുന്നത് അവൻ ശൈത്യകാലത്ത് പോകും പിന്നെ അവൻ വർഷങ്ങൾക്ക് ശേഷം മടങ്ങിവരും അതിനാൽ നമ്മൾ കൃത്യമായി കണക്കാക്കുകയാണെങ്കിൽ അദ്ദേഹം മിനിയുടെ സർക്കിളിൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ 6 മാസത്തിൽ താഴെയായിരിക്കാം അങ്ങനെയാണ് ഇരുവരും തമ്മിലുള്ള സൌഹൃദത്തിന്റെ ദൈർഘ്യം ഇത് ചെറുതാണോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്നിട്ട് അയാൾ മിനിയുടെ ലോകം വിട്ടുപോകുന്നു കാരണം അവൻ അറസ്റ്റിലായി കുറച്ച് വർഷങ്ങൾ 8 വർഷം ജയിലിൽ കിടന്നു വാസ്തവത്തിൽ ചെറിയ പെൺകുട്ടിയുമായുള്ള സൌഹൃദം വീണ്ടെടുക്കാൻ അവൻ പിന്നീട് തിരികെ വരുന്നു അതിനാൽ ആഖ്യാതാവ് പറയുന്നത് ഇതാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി റഹ്മത്തിനെ വർഷങ്ങളോളം ജയിലിലേക്ക് അയച്ചു കൂടാതെ കഥയുടെ അവസാനത്തിൽ താൻ പുറത്തായിരുന്ന കൃത്യമായ വർഷങ്ങളുടെ എണ്ണം ആഖ്യാനരീതി നമ്മോട് പറയുന്നു എഴുത്തുകാരൻ പറയുമ്പോൾ പിതാവ് അത് പറയുമ്പോൾ അവൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അവനു പോലും ഉറപ്പില്ലായിരുന്നു കഴിഞ്ഞ 8 വർഷമായി കൽക്കത്തയിൽ ജയിലിൽ കിടന്ന റഹ്മത്തിന്റെ സ്വന്തം മകളായിരുന്നു അവൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കഥ ശരത്കാലത്തിലാണ് ആരംഭിക്കുന്നത് അത് വീണ്ടും ശരത്കാല മാസത്തിൽ അവസാനിക്കുന്നു അതിനാൽ ഈ പ്രത്യേക സീസണിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം ഏത് തരത്തിലുള്ള സീസണാണ് ശരത്കാലം വർഷത്തിലെ ഈ പ്രത്യേക ഘട്ടത്തിൽ ആരംഭിക്കേണ്ട ചില സംഭവങ്ങളുടെ തീമാറ്റിക് സൂചന എന്താണ് അങ്ങനെ ആഖ്യാതാവ് പറയുന്നു വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ശരത്കാലമായിരുന്നു മിനിയുടെ വിവാഹം നിശ്ചയിച്ചു വലിയ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും സമയമായ പൂജാ അവധിക്കാലത്ത് അവൾ വിവാഹം കഴിക്കേണ്ടതായിരുന്നു ഈ സംഭവം അവളുടെ വീട്ടുകാരുടെ സന്തോഷം അവളുടെ ഭർതൃ വീട്ടിലേക്ക് കൊണ്ടുപോകും നമ്മെ മ്ലാനമാക്കുന്നു വിവാഹമെന്ന ഈ സംഭവത്തിലൂടെ ഒരു കുട്ടിയുടെ നഷ്ടം അവളുടെ വീടിന്റെ അവളുടെ മാതാപിതാക്കളുടെ വീടിന്റെ മ്ലാനതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ രസകരമാണ് ആ സ്പേഷ്യൽ അസോസിയേഷൻ വളരെ രസകരമാണ് എന്തായാലും പ്രതീകാത്മകമായി മകളുടെ സാന്നിധ്യം സന്തോഷവുമായും അഭാവം മ്ലാനതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് കഥയിൽ പരാമർശിച്ചിരിക്കുന്ന വളരെ രസകരമായ ഒരു വസ്തുതയാണ് ഇപ്പോൾ കഥയുടെ അവസാനത്തിൽ കാബൂളിൽ നിന്നുള്ള പഴക്കച്ചവടക്കാരനായ കാബൂളിവാലയെ കണ്ടെത്തുകയാണെങ്കിൽ അവൻ കാബൂളിൽ ഇല്ല അവൻ തന്റെ രാജ്യമായ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചുപോയിട്ടില്ല എന്നാൽ അദ്ദേഹം വാസ്തവത്തിൽ കൊൽക്കത്തയിലെ ഒരു ഇടവഴിയിൽ എന്റെ വീടിന്റെ തറയിൽ ഇരിക്കുകയാണ് കൂടാതെ അഫ്ഗാനിസ്ഥാനിലെ വരണ്ടതും കുന്നുകളുള്ളതുമായ ഭൂപ്രദേശങ്ങളുടെ ചിത്രങ്ങൾ അദ്ദേഹം തുടർന്നു അങ്ങനെ മിനിയുടെ ഈ അച്ഛൻ ആ മനുഷ്യനെ തറയിൽ ഇരുന്ന് സ്വന്തം രാജ്യത്തെ വരണ്ട മലമ്പ്രദേശമായ അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് ചിന്തിക്കുന്നത് കാണുന്നു അവിടെയാണ് കഥയുടെ അവസാനത്തിൽ കാബൂളിവാല സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഇത് വളരെ രസകരമായ ഒരു ആശയമാണ് കാരണം അവൻ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ചില കാരണങ്ങളാൽ അയാൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു അതിനാൽ കഥയുടെ അവസാനത്തിൽ മിനിയുടെ അച്ഛൻ അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങാനും മകളെ കാണാനും അയാൾക്ക് പണം വാഗ്ദാനം ചെയ്യുമ്പോൾ പോലും കൽക്കട്ടയിലെ ഒരു തെരുവിൽ ഈ പ്രഭുവിന്റെ വീട്ടിനുള്ളിൽ ഒരു ഇടവഴിയിലെ തറയിലാണ് ഈ മനുഷ്യനെ വായനക്കാർ കാണുന്നത് അതിനാൽ നിശ്ചലതയുടെ വളരെ രസകരമായ ചിത്രം കൂടാതെ അദ്ദേഹം ഒരു എഴുത്തുകാരനെപ്പോലെ ചില വഴികളിൽ മനസ്സ് സഞ്ചാരിയായി മാറിയതായി നമുക്ക് കാണാൻ കഴിയും അതിനാൽ പിതാവും കാബൂളിൽ നിന്നുള്ള ഈ അപരിചിതനും തമ്മിൽ വിഷയപരമായ ബന്ധങ്ങളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എഴുത്തുകാരനും മിനിയുടെ പിതാവ് കൂടിയായ എഴുത്തുകാരനും അപരിചിതമായ രാജ്യത്ത് നിന്നുള്ള കാബൂളിവാലയും തമ്മിൽ ഒരു ബന്ധമുണ്ട് സാമ്യമുണ്ട് കഥയുടെ അവസാനത്തോടെ രണ്ടുപേരും കുഴങ്ങിപ്പോയി എഴുത്തുകാരനായ പിതാവ് മാത്രമല്ല കാബൂളിവാലയും ഭാവനയിൽ ആശ്ചര്യപ്പെടാൻ തുടങ്ങുന്നു രണ്ടുപേരും ഒന്ന് മറ്റൊന്നിനേക്കാൾ ഇരട്ടിയാകുന്നത് എങ്ങനെയെന്നത് വളരെ രസകരമാണ് ഇപ്പോൾ ക്രമീകരണം എന്നത് ഒരു സാങ്കൽപ്പിക ലോകത്തിലെ കഥാപാത്രങ്ങളുടെ സാമൂഹിക അവസ്ഥകളെക്കുറിച്ചാണ് അതിനാൽ ഒരാൾക്ക് ചോദിക്കാവുന്ന ചോദ്യം ഇതാണ് ഒരു പ്രത്യേക കഥയിലെ കഥാപാത്രങ്ങളുടെ ദൈനംദിന ജീവിതം എന്താണ് അപ്പോൾ നിങ്ങൾ കാബൂളിവാലയെ നോക്കിയാൽ ദിവസേന അച്ഛൻ എന്താണ് ചെയ്യുന്നത് മിനി എന്ത് ചെയ്യുന്നു കാബൂളിവാല എന്താണ് ചെയ്യുന്നത് ഇനി അവർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം അച്ഛൻ കഥകൾ എഴുതുന്നു അവൻ ഒരു എഴുത്തുകാരനാണ് അവൻ ഇടയ്ക്കിടെ നഗരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു ഒരുപക്ഷേ വീട്ടുകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാൽ അടിസ്ഥാനപരമായി അദ്ദേഹത്തിന്റെ തൊഴിൽ കഥ എഴുതുക എന്നതാണ് മിനിക്ക് എങ്ങനെയുണ്ട് അവൾ കൃത്യമായി എന്താണ് ചെയ്യുന്നത് ഈ പെൺകുട്ടി കളിക്കുന്നു ഈ പെൺകുട്ടി അവളുടെ പ്രായമുള്ളവരോടും ഇളയവരോടും സംസാരിക്കുന്നു അവൾ വളരുന്നു കഥയുടെ അവസാനം അവൾ വിവാഹിതയായി അതാണ് അവൾ ചെയ്യുന്നത് പിന്നെ കാബൂളിവാല എന്താണ് ചെയ്യുന്നത് സാധനങ്ങൾ വിൽക്കുന്ന നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന അദ്ദേഹം ഒരു സഞ്ചാര വ്യാപാരിയാണ് എന്ന അർത്ഥത്തിൽ വളരെ ചലനാത്മകനാണ് അതിനാൽ അവൻ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു ബിസിനസ്സ്കാരനാണ് അതുകൊണ്ട് കഥയിലെ വിവിധ കഥാപാത്രങ്ങളുടെ സാമൂഹിക അവസ്ഥകൾ ഇതാണ് അവരുടെ സാമൂഹിക സാഹചര്യങ്ങൾ അവരുടെ ജീവിതരീതിയും ജീവിത സാഹചര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണിച്ചുതരുന്നു ഇപ്പോൾ കഥയെക്കുറിച്ച് ഒരാൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് ചോദ്യങ്ങൾ അവയിൽ പ്രാദേശിക നിറമുണ്ടോ ഒരു പ്രത്യേക സ്ഥലത്തെ സംസാരം അല്ലെങ്കിൽ വസ്ത്രധാരണം അല്ലെങ്കിൽ പെരുമാറ്റരീതികൾ ആചാരങ്ങൾ മുതലായവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ ഇവയാണ് ചോദിക്കേണ്ട പ്രധാന ചോദ്യങ്ങൾ കാബൂളിവാലയുടെ പശ്ചാത്തലത്തിൽ അവൻ കൊണ്ടുപോകുന്ന പതിവ് വസ്തുക്കൾ പ്രത്യേകിച്ച് എപ്പോഴും അവന്റെ കൂടെയുള്ള ചാക്ക് അല്ലെങ്കിൽ നീണ്ട മുടി അല്ലെങ്കിൽ മുഷിഞ്ഞ രൂപങ്ങൾ എന്നിവ നമ്മൾ പരിശോധിച്ചു അതിനാൽ ഇവയാണ് ചില പെരുമാറ്റരീതികൾ വ്യക്തിയുടെ ഒരു പ്രത്യേക ഐഡന്റിറ്റി സ്ഥാപിക്കുന്ന സ്വഭാവത്തിന്റെ പെരുമാറ്റരീതികൾ കഥയുടെ അവസാനം കാബൂളിവാല ജയിലിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ മിനിയുടെ വീട് സന്ദർശിക്കുമ്പോൾ അച്ഛന് അവനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് വളരെ രസകരമാണ് കാരണം അവൻ അടിമുടി മാറിയിരിക്കുന്നു കൂടാതെ 8 വർഷത്തെ ജയിൽവാസം തീർച്ചയായും ഒരു പ്രത്യേക കഥാപാത്രത്തോട് അത് ചെയ്യും ആ പതിവ് ചാക്ക് തന്റെ പക്കലില്ലാത്തതിനാലും നീണ്ട മുടിയോ രോമമുള്ള രൂപമോ ഇല്ലാത്തതിനാലും തന്റെ പുഞ്ചിരിയിലൂടെ വളരെ രസകരമായി തന്നെ തിരിച്ചറിഞ്ഞുവെന്ന് അച്ഛൻ പറയുന്നു 8 വർഷം മുമ്പ് അപരിചിതനുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് പിതാവിനെ ബന്ധിപ്പിക്കുന്നതോ ഓർമ്മിപ്പിക്കുന്നതോ ആയ ഒരു കാര്യമാണ് അവന്റെ പുഞ്ചിരി അതിനാൽ വായനക്കാരിൽ ആഖ്യാനപരവും വൈകാരികവുമായ സ്വാധീനം സൃഷ്ടിക്കുന്നതിന് വിവരണങ്ങൾ തീർച്ചയായും വളരെ പ്രധാനമാണ് കഥയിൽ വസ്ത്രധാരണം വിവരിച്ചിരിക്കുന്ന മറ്റൊരു കഥാപാത്രത്തെ നോക്കാം അതാണ് മിനി ആദ്യ വിവരണം കഥയുടെ അവസാനത്തിൽ സംഭവിക്കുന്നു അവൾ വിവാഹ വസ്ത്രത്തിൽ ആയിരിക്കുമ്പോൾ അത് വളരെ രസകരമാണ് അതുകൊണ്ട് മിനി അച്ഛൻ പോലുള്ള മറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വസ്ത്രങ്ങളും ശാരീരിക രൂപവും നിരന്തരം പരാമർശിക്കുന്ന കാബൂളിവാലയും നമുക്കുണ്ട് ഞാൻ പറഞ്ഞതുപോലെ മിനിയുടെ വിവരണം പ്രത്യേകിച്ച് അവളുടെ വസ്ത്രധാരണം അവൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ തരം പരാമർശിക്കപ്പെടുന്നത് കഥയുടെ അവസാനത്തിൽ മാത്രമാണ് ചെയ്തത് അവൾ അവളുടെ വധു വസ്ത്രത്തിലും ആചാരപരമായ മേക്കപ്പിലും ആയിരിക്കുമ്പോൾ മാത്രമാണത് അവൾ അകത്തളങ്ങളിൽ നിന്ന് പുറത്തുവന്ന് എന്റെ അരികിൽ സുഖമായി നിന്നു അതിനാൽ ഒരു ആഖ്യാനത്തിന്റെ വൈകാരിക തീവ്രത കൂട്ടുന്ന വളരെ രസകരമായ കാര്യങ്ങളാണിവ നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം മാനസികാവസ്ഥയെക്കുറിച്ചോ അന്തരീക്ഷത്തെക്കുറിച്ചോ ആണ് കഥയുടെ തുടക്കത്തിൽ സൃഷ്ടിക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ് കഥ ശോഭയുള്ളതും സന്തോഷപ്രദവുമാണോ അതോ ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതുമാണോ അല്ലെങ്കിൽ ഈ സ്പെക്ട്രത്തിൽ ഇടയിൽ എവിടെയെങ്കിലും അതിനാൽ ഒരു കഥയിലെ വിവിധ തലങ്ങളെ അതിന്റെ തീമുകളുടെയോ കേന്ദ്ര അർത്ഥങ്ങളുടെയോ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ഈ ചോദ്യങ്ങൾ നമ്മളെ സഹായിക്കും കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇത് കഥയുടെ പ്രാരംഭ ഖണ്ഡികയാണ് ഇത് വായനക്കാരിൽ എന്ത് മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നുവെന്ന് നോക്കാം "എന്റെ 5 വയസ്സുള്ള മകൾ മിനി സദാസംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ദിവസം മുഴുവൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു ഭാഷയ്ക്കുള്ള കഴിവ് സ്വായത്തമാക്കാൻ ജനിച്ച് ഏകദേശം ഒരു വർഷമെടുത്തു അതിനുശേഷം ജീവിതത്തിൽ ഉണർന്നിരിക്കുന്ന ഒരു നിമിഷം പോലും അവൾ നിശ്ശബ്ദയായി കൊണ്ട് പാഴാക്കിയിട്ടില്ല പലപ്പോഴും അവളുടെ അമ്മ മിണ്ടാതിരിക്കാൻ അവളെ ശകാരിക്കും പക്ഷേ എനിക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല പെൺകുട്ടി ഒരു നിമിഷം പോലും മിണ്ടാതിരിക്കുന്നത് എനിക്ക് വളരെ വിചിത്രവും അസാധാരണവുമായി തോന്നുന്നു അത് എനിക്ക് അസഹനീയമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മിനിയുമായുള്ള എന്റെ സംഭാഷണം പലപ്പോഴും ആവേശഭരിതമായത് ഇത് വളരെ രസകരമായ ഒരു പ്രാരംഭ ഖണ്ഡികയാണ് കൂടാതെ ഈ പ്രത്യേക വാചകം ജീവിതത്തിൽ ഉണർന്നിരിക്കുന്ന ഒരു നിമിഷം പോലും അവൾ നിശ്ശബ്ദയായി കൊണ്ട് പാഴാക്കിയിട്ടില്ല എന്നത് അതിശയോക്തിയാണ് ഇത് കഥയുടെ പ്രസന്നമായ സ്വരത്തെ പ്രകാശമാനമാക്കുന്നു അതിനാൽ ഇത് തീർച്ചയായും വായനക്കാരിൽ ഒരു പുഞ്ചിരി സമ്മാനിക്കും തീർച്ചയായും ഇത് 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് കൂടാതെ 5 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി വളരെ രസകരവും ആകർഷകവുമായ ഒരു രൂപമാണ് നമുക്കിവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് നിശബ്ദത പാലിക്കാൻ അവളെ ആക്രോശിക്കുന്ന അമ്മയുടെ രൂപത്തിലൂടെ അവിടെ ചെറിയ പൊട്ടിത്തെറികളുണ്ട് അതിനാൽ ഇവിടെ കാര്യങ്ങൾ സന്തുലിതമാണ് കുട്ടി നല്ല എളിമയുള്ള ഒരു പെൺകുട്ടിയെപ്പോലെ മിണ്ടാതിരിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മയുടെ രൂപത്തിലൂടെ നേരിയ അന്തരീക്ഷം അല്പം നെഗറ്റീവ് സ്പർശനത്താൽ സന്തുലിതമാക്കപ്പെടുന്നു എന്നാൽ പിതാവിന് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല പിതാവ് വളരെ ക്ഷമാശീലനാണ് അതിനാൽ 2 പിതൃ രൂപങ്ങൾക്കിടയിൽ ഒരു നല്ല ബാലൻസ് നമ്മൾ കാണുന്നു ഒരു നിമിഷം പോലും മിണ്ടാതിരിക്കുന്നത് എനിക്ക് വളരെ വിചിത്രവും അസാധാരണവുമായി തോന്നുന്നു അത് എനിക്ക് അസഹനീയമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മിനിയുമായുള്ള എന്റെ സംഭാഷണം പലപ്പോഴും ആവേശഭരിതമായത് വീണ്ടും ആവേശഭരിതമായ വളരെ സ്പിരിറ്റഡ് എന്ന വാക്ക് കഥയുടെ ആദ്യ ഖണ്ഡികയുടെ മാനസികാവസ്ഥ ഉയർത്തുന്നു സന്തോഷകരമായ സ്വരത്തിലേക്ക് മടങ്ങുക അതിനാൽ ഈ പ്രത്യേക ഓപ്പണിംഗ് ഖണ്ഡികയിൽ ഞാൻ പറഞ്ഞതുപോലെ നല്ല പരിശോധനകളും ബാലൻസുകളും ഉണ്ട് കഥയിൽ ഭയപ്പെടുത്തുന്ന ഒരു നിമിഷമുണ്ട് അത് കാബൂളിവാലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കഥയിൽ അക്രമാസക്തനും അശ്ലീല ഭാഷ ഉപയോഗിക്കുന്നതുമായ ഒരേയൊരു വ്യക്തി അദ്ദേഹം മാത്രമാണ് ഒരു ഷാൾ വാങ്ങിയ ശേഷം പണം നൽകാൻ വിസമ്മതിച്ച ഒരാളെ ആക്രമിച്ചതിന് റഹ്മത്ത് അറസ്റ്റിലായപ്പോഴാണ് ഈ പ്രത്യേക സന്ദർഭം അയാൾ ആ മനുഷ്യനെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നു മിനി ബഹളം കേട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു പെട്ടെന്ന് റഹ്മത്തിന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു അതിനാൽ കുട്ടിയുമായി സമ്പർക്കം പുലർത്തുന്ന നിമിഷം അവന്റെ പരുക്കൻ അക്രമാസക്തമായ പെരുമാറ്റം പൂർണ്ണമായും മാറ്റത്തിന് വിധേയമാകുന്നു അതാണ് ഈ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് അവസാന ഖണ്ഡികയിലേക്ക് വരാം ഈ പ്രത്യേക ഖണ്ഡികയുടെ ധ്വനി നോക്കാം ആഖ്യാതാവ് പറയുന്നു "ആ പണം സമ്മാനമായി നൽകുന്നതിന് എനിക്ക് ഉത്സവത്തിന്റെ മോടിയിൽ നിന്ന് ഒന്നോ രണ്ടോ ഇനങ്ങൾ ഒഴിവാക്കേണ്ടി വന്നു ഉദാഹരണത്തിന് ലൈറ്റിംഗ് ഡെക്കറേഷൻ ഞാൻ ആഗ്രഹിച്ചത് പോലെ ഗംഭീരമായിരുന്നില്ല ബാൻഡ് പാർട്ടി റദ്ദാക്കേണ്ടി വന്നു ഇത് സ്ത്രീകളെ അസ്വസ്ഥരാക്കി പക്ഷേ പരോപകാരിയായ ഒരു ആത്മാവിനാൽ ഉന്മേഷം ലഭിച്ചതിനാൽ എന്റെ ശുഭകരമായ ചടങ്ങ് കൂടുതൽ പ്രകാശപൂരിതമായി അതിനാൽ എഴുത്തുകാരൻ പിതാവ് കാബൂളിവാലയുടെ അവസ്ഥയോട് പൂർണ്ണമായും അനുകമ്പ കാണിക്കുകയും അവനെ സാമ്പത്തികമായി സഹായിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കഥയിലെ നിമിഷമാണിത് അവൻ ചെയ്യുന്നത് തന്റെ മകളുടെ വിവാഹത്തിനുള്ള ബജറ്റിൽ നിന്ന് ഒരു പ്രത്യേക തുക എടുത്ത് കാബൂളിൽ നിന്നുള്ള അപരിചിതനായ ആൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഉദാരമായ ഈ പ്രവൃത്തി അവന്റെ മകൾക്ക് വേണ്ടി അവൻ ആസൂത്രണം ചെയ്ത ആഘോഷങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു ഉദാഹരണത്തിന് ലൈറ്റിംഗ് ഡെക്കറേഷൻ അവൻ ആസൂത്രണം ചെയ്തതുപോലെ മനോഹരമായിരുന്നില്ല കൂടാതെ അദ്ദേഹത്തിന് സംഗീത വിരുന്ന് ബാൻഡ് പാർട്ടി എന്നിവ റദ്ദാക്കേണ്ടിവന്നു കൂടാതെ ഈ പുതിയ ക്രമീകരണങ്ങൾ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല എന്നാൽ പിതാവ് ഉദാരമനസ്കതയാൽ ഉയർത്തപ്പെട്ടു അദ്ദേഹത്തിന്റെ മംഗളകരമായ ചടങ്ങ് കൂടുതൽ തിളക്കമുള്ളതായിത്തീർന്നു ഉത്സവം മുമ്പത്തേക്കാൾ മനോഹരമായി പ്രകാശിച്ചു എന്ന് ആലങ്കാരികമായി പറയുന്നു അതിനാൽ ഇത് വളരെ രസകരമായ ഒരു ഖണ്ഡികയാണ് കൂടാതെ പ്രാരംഭ ഖണ്ഡികയിൽ പോസിറ്റീവ് നെഗറ്റീവ് സ്പർശനങ്ങളുടെ സംയോജനം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അയാൾക്ക് വിവാഹ പാർട്ടിയിൽ നിന്ന് ഒന്നോ രണ്ടോ വശങ്ങൾ വെട്ടിക്കളയേണ്ടിവന്നു അങ്ങനെ അത് നെഗറ്റീവ് ടച്ചാണ് പക്ഷേ അത് ചെയ്തതോടെ അയാൾക്ക് ഈ ദൈന്യത തിരികെ ലഭിക്കുന്നു അവൻ അത് ചെയ്തതിനാൽ അത് മംഗളകരമായി തോന്നുന്നു എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ ചടങ്ങ് കൂടുതൽ തിളക്കമാർന്നതും ഫലപ്രദവുമാണ് കൂടാതെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം വളരെ അനുഗ്രഹീതമായിരിക്കും അതിനാൽ ഈ പ്ലസുകളുടെയും മൈനസുകളുടെയും സംയോജനമാണ് മുഴുവൻ കഥയിലൂടെയും കടന്നുപോകുന്നതായി തോന്നുന്ന പ്രമേയം കഥയിലെ ഭയപ്പെടുത്തുന്ന നിമിഷത്തെക്കുറിച്ചുള്ള മുൻ എപ്പിസോഡിൽ പോലും കാബൂളിവാല അക്രമാസക്തനാണ് അയാൾ അശ്ലീലമായ ഭാഷ ഉപയോഗിക്കുന്നു എന്നാൽ മിനി രംഗപ്രവേശനം ചെയ്യുന്ന നിമിഷം ഈ കഥാപാത്രത്തിന്റെ ആ വശം അടിച്ചമർത്തപ്പെടുന്നു റഹ്മത്തിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ ഭാവങ്ങൾ നിറഞ്ഞിരിക്കുന്നു അതിനാൽ ആ പ്രത്യേക കഥാപാത്രത്തിന്റെ പോസിറ്റീവും നെഗറ്റീവും അതാണ് ഇപ്പോൾ ആത്യന്തികമായി നമ്മൾ കഥയെ എങ്ങനെ വിലയിരുത്തും കഥയുടെ ഉപസംഹാരം പ്രത്യേകിച്ച് അവസാന ഖണ്ഡിക നോക്കുകയാണെങ്കിൽ പിതാവിന്റെ അധികാരം ഊന്നിപ്പറയുന്നതായി നമുക്ക് കാണാം കാരണം വിവാഹത്തിൽ നിന്ന് അദ്ദേഹം ആസൂത്രണം ചെയ്ത സംഭവങ്ങളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് തന്റെ മകളെ കല്യാണത്തിന് അണിയിച്ചൊരുക്കാൻ അയാൾക്ക് അധികാരമുണ്ട് ഇത്തരമൊരു അധികാരം കഥയിൽ അടിവരയിടുന്ന ഒന്നാണ് അവൻ മിനിയുടെ മകളുടെ സ്വന്തം മകളുടെ സംരക്ഷകനായിരിക്കുമ്പോൾ കഥയുടെ അവസാനത്തിൽ അദ്ദേഹം സഹാനുഭൂതി കാണിക്കുന്ന മറ്റൊരു പിതാവായ കാബൂളിവാലയുടെ സംരക്ഷകൻ കൂടിയാണ് ആ കാബൂളിവാലയും മിനിയെ പോലെ ഒരു മകളുടെ അച്ഛനാണ് ഞാൻ ഇവിടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന അവസാന കാര്യം ഈ കഥയിലെ ഓരോ ഘട്ടത്തിലും സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു എന്നതാണ് മാത്രമല്ല അവർ ഇവിടെ പ്രധാന കഥാപാത്രങ്ങളല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഈ കഥയിൽ മിനിയും മിനിയുടെ അമ്മയും മാത്രമാണ് നമ്മൾക്ക് സ്ത്രീ വേഷത്തിലുള്ളത് മിനിയുടെ അമ്മ വളരെ നിസ്സാരമായ ഒരു റോളാണ് അവതരിപ്പിക്കുന്നത് കഥയുടെ തുടക്കത്തിൽ മിനി തന്നെ ഒരു കേന്ദ്ര ഘട്ടത്തിൽ എത്തിയെങ്കിലും കഥ പുരോഗമിക്കുമ്പോൾ അവൾക്ക് പ്രാധാന്യം കുറയുന്നു കൂടാതെ അച്ഛന്റെ ചിന്തകൾ അവന്റെ പ്രതികരണങ്ങൾ അവന്റെ വികാരങ്ങൾ കാബൂളിവാലയുടെ അധിനിവേശം സെന്റർ സ്റ്റേജ് എന്നു പറയാം അതിനാൽ സ്ത്രീകളെ അവഗണിക്കുന്നു പക്ഷേ അവർ ന്യായമായും അങ്ങനെയാണ് കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ സ്ത്രീകൾക്ക് ബാൻഡ് പാർട്ടിയും വിളക്കിന്റെ അലങ്കാരവും ആഗ്രഹിക്കുമായിരുന്നു കാരണം അവരുടെ ജീവിതത്തിൽ കാബൂളിവാല കളിച്ചതിന്റെ പ്രാധാന്യം അവർക്കറിയില്ല പ്രാരംഭ ഖണ്ഡികയിലേക്ക് പോയാൽ കുട്ടിയുടെ ആത്മാവിനെ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്ന അമ്മയെയും വളരെ പോസിറ്റീവായ വെളിച്ചത്തിൽ ചിത്രീകരിച്ചിട്ടില്ല അതിനാൽ ആത്യന്തികമായി ഈ കഥ പിതാവിന്റെ അധികാരം ഉറപ്പിക്കുകയും പിതൃ രൂപങ്ങളെ വളരെ സഹാനുഭൂതിയുള്ളവരും തന്മയീഭാവം പ്രകടിപ്പിക്കുന്നവരുമാക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ തുടരും